സ്വാഗതം ഇത് ലെക്ച്ചർ നമ്പർ 47 ആണ് ഐഗൺ വാല്യൂകളും ഐഗൺ വെക്ടറുകളും സംബന്ധിച്ച നമ്മളുടെ ചർച്ച തുടരും പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ ഐഗൻ വാല്യൂകളുടെ മൂല്യനിർണ്ണയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടാതെ ചില നല്ല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അതിനായി നമുക്ക് ഈ പ്രശ്നം ഇവിടെ ആരംഭിക്കാം ഈ മാട്രിക്സിന്റെ ഐഗൻ വാല്യൂകളും ഐഗൺവെക്ടറുകളും കണ്ടെത്തുക വീണ്ടും വളരെ ലളിതമായ ഒരു മാട്രിക്സ് അതിനായി ഐഗൻ വാല്യൂകൾ കണ്ടെത്താനുള്ള ആദ്യപടിയായി നമ്മൾ എഴുതേണ്ട ക്യാരക്ടറിസ്റ്റിക് സമവാക്യം അതായത് ഈ ഡിറ്റർമിനന്റ് ഓഫ് അത് നമുക്ക് ഉള്ള ക്യാരക്ടറിസ്റ്റിക് സമവാക്യമാണ് അതിനായി ഡയഗണൽ എൻട്രികളിൽ നിന്ന് കുറയ്ക്കപ്പെടും അല്ലാത്തപക്ഷം ഇത് വെറും മാട്രിക്സ് A ആണ് അതിനാൽ ഇവിടെ നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക് സമവാക്യം ഉണ്ട് അത് രണ്ട് ഐഗൺ വാല്യൂകൾ ആണെന്ന് പറയുന്നു അതിനാൽ ഇവിടുത്തെ വാല്യൂകൾ ആണ് അതിനാൽ ഇപ്പോൾ എന്നതുമായി ബന്ധപ്പെട്ട ഐഗൺവെക്റ്റർ നമ്മൾ കണക്കാക്കും ഇവിടെ ആദ്യത്തെ ഐഗൺ വാല്യൂ 0 ആണ് അതിനാൽ ലീനിയർ സമവാക്യത്തിന്റെ സിസ്റ്റം നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ലളിതമാണ് അതിനാൽ നമ്മൾ അടിസ്ഥാനപരമായി ഈ പരിഹരിക്കുന്നു അല്ലെങ്കിൽ ഈ ന്റെ നൾ സ്പെയ്സും നൾ സ്പെയ്സിന്റെ ജനറേറ്ററും അല്ലെങ്കിൽ ഏതെങ്കിലും ബെയ്സിസും നേടാൻ നമ്മൾ ശ്രമിക്കുന്നു അത് ഐഗൺവെക്ടർ ആയിരിക്കും അതിനാൽ ഇവിടെ ഇതിലേക്ക് എത്തുന്നു അതിനാൽ തന്നിരിക്കുന്ന മാട്രിക്സിന്റെ റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോം ആണ് ഇത് അടിസ്ഥാനപരമായി ഈ ആദ്യ സമവാക്യം എന്ന് പറയുന്നു നമുക്ക് ഒരു ഫ്രീ വേരിയബിൾ ഉണ്ട് അത് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം അതിനാൽ നമുക്ക് ഈ x2 ഒരു ഫ്രീ വേരിയബിളായി എടുക്കാം കാരണം നമ്മളുടെ കുറിപ്പുകൾ അനുസരിച്ച് ഇതാണ് ആദ്യം അതിനാൽ ഈ x1 ഫ്രീ അല്ല തുടർന്ന് നമുക്ക് x2 ഫ്രീ ആയി എടുക്കാം എന്നാൽ ഏത് സാഹചര്യത്തിലും നമുക്ക് അവയിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം മറ്റൊന്ന് നൽകിയിരിക്കുന്ന തിരഞ്ഞെടുത്ത നമ്പറിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഇവിടെ x2 നമുക്ക് തിരഞ്ഞെടുക്കാം തുടർന്ന് നമുക്ക് x1 ലഭിക്കും അതിനാൽ ഈ നിരവധി സാധ്യതകളിൽ നിന്ന് ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ചെയ്ത ഒരു വെക്റ്റർ തിരഞ്ഞെടുക്കാം x2 ഫ്രീ വേരിയബിൾ ആൽഫയായി എടുക്കുകയും തുടർന്ന് x1 വരുന്നു അതിനാൽ നമുക്ക് ഇവിടെ വെക്റ്റർ എടുക്കാം അതിനാൽ ഇത് 1 ആകും അതിനാൽ ഈ വെക്റ്റർ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് എടുക്കാം ഇവിടെയുള്ള വെക്റ്റർ ഏതെങ്കിലും സംഖ്യ കൊണ്ട് നമുക്ക് ഇവിടെ ഗുണിക്കാം അത് തന്നിരിക്കുന്ന സമവാക്യത്തിന്റെ ഐഗൺവെക്റ്റർ അഥവാ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ ആയിരിക്കും അതിനാൽ ഇവിടെ നമുക്ക് ന് അനുയോജ്യമായ ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ അല്ലെങ്കിൽ ഐഗൺവെക്റ്റർ ലഭിച്ചു അതുപോലെ നമുക്ക് ന് അനുയോജ്യമായ ഐഗൺവെക്റ്ററും നോക്കാം അതിനാൽ വീണ്ടും നമ്മൾ സമവാക്യ സിസ്റ്റം പരിഹരിക്കേണ്ടതുണ്ട് ഐഗൺവെക്ടറുകൾ അതിനാൽ ഈ കേസിൽ 0 മായി ബന്ധപ്പെട്ട ഐഗൺവെക്റ്ററുകൾ ഇതായിരുന്നു ഉം ഉം ഇവിടെ നമുക്ക് ഇത് ഉം ഉം ആണ് ഈ ഐഗൺ വെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നും മുമ്പത്തെ ലെക്ച്ചർൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഫലം ഔപചാരികമായി തെളിയിക്കുന്നു വ്യത്യസ്തമായ ഐഗൺ വാല്യൂകൾക്കനുസൃതമായി നമുക്ക് ഐഗൺവെക്റ്ററുകൾ ഉണ്ട് ഐഗൺവെക്റ്ററുകളുടെ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് അല്ലെങ്കിൽ വ്യത്യസ്ത ഐഗൻ വാല്യൂകൾക്ക് അനുയോജ്യമായ ഐഗൺവെക്ടറുകൾ എല്ലായ്പ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് അതിനാൽ ഈ രണ്ട് വെക്റ്ററുകളും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോയെന്ന് നമുക്ക് ഇവിടെ പരിശോധിക്കാം ഇത് മറ്റൊരു പ്രോബ്ളമാണ്

ഇവിടെ വീണ്ടും നമുക്ക് ഇപ്പോൾ 3 × 3 ആയ ഈ മാട്രിക്സിന്റെ ഐഗൻ വാല്യൂകൾ ഐഗൺവെക്ടറുകൾ എന്നിവ കണ്ടെത്തണം അതിനാൽ ഈ ഘട്ടങ്ങൾ നമ്മൾ വീണ്ടും പിന്തുടരേണ്ടതുണ്ട് ആദ്യം നമുക്ക് ക്യാരക്ടറിസ്റ്റിക് സമവാക്യം എഴുതേണ്ടതുണ്ട് അവിടെ നിന്ന് നമുക്ക് ഐഗൺ വാല്യൂകൾ ലഭിക്കും അതിനാൽ ക്യാരക്ടറിസ്റ്റിക് സമവാക്യം ഡിറ്റർമിനന്റ് ഓഫ് A λI ഈക്വൽ ടു സീറോ ആയിരിക്കും അതിനാൽ ഡയഗണൽ എൻട്രികളിൽ നിന്നും ഈ ലാംഡ കുറയ്ക്കണം ഡയഗണൽ എൻട്രികൾ ഇവിടെ 3 3 5 എന്നിവയാണ് അതിനാൽ അതാണ് ഈ മാട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് സമവാക്യം അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ളതല്ലാത്ത ഈ ഡിറ്റർമിനന്റ് നാം വിലയിരുത്തേണ്ടതുണ്ട് അതിനാൽ നമ്മൾക്ക് ഇത് ഉണ്ട് ഐഗൻ വാല്യൂകൾ അതിനാൽ ഐഗൺ വാല്യൂകൾ ഇപ്പോൾ 1 ഉം 5 ഉം ആണ് ഇവ രണ്ട് ഐഗൻ വാല്യൂകളാണ് ഓരോന്നിനും അനുയോജ്യമായ ഐഗൺവെക്റ്ററുകൾ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ഇത് എടുക്കുമ്പോൾ നമുക്ക് ഈ സമവാക്യ സിസ്റ്റം ലഭിക്കുന്നു നമ്മളുടെ A ആയിരുന്നു അതിനാൽ ഈ A മൈനസ് λI ഉം ഉം ആണ് അതിനാൽ 1 ഡയഗണലിൽ നിന്ന് കുറയ്ക്കപ്പെടും ഇത് ഇവിടെയുള്ള നമ്മളുടെ മാട്രിക്സ് ആയിരിക്കും അതിനാൽ ഈ സമവാക്യത്തിന്റെ പരിഹാരമായി നമുക്ക് ലഭിക്കും അതിനാൽ ഈ കേയ്സിൽ ഈ സിസ്റ്റത്തിന്റെ പരിഹാരം ആണ് അതാണ് ഈ മാട്രിക്സിന്റെ നൾ സ്പേസിന്റെ ജനറേറ്റർ അതിനാൽ ഈ നൾ സ്പേസിൽ നിന്ന് നമുക്ക് ഏത് വെക്റ്ററും നോൺസീറോ വെക്റ്ററും തിരഞ്ഞെടുക്കാം ഉദാഹരണത്തിന് നമുക്ക് അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഗുണിതം ഈ ഐഗൻവാല്യൂ ന് അനുയോജ്യമായ ഐഗൺവെക്റ്റർ ആകാം മറ്റൊന്നിലേക്ക് നീങ്ങുന്നു അതിനാൽ നമ്മൾക്ക് ഇത് ഉണ്ട് തുടർന്ന് ഈ നൽകിയ A യ്ക്കുള്ള സമവാക്യങ്ങളുടെ സിസ്റ്റം നമ്മൾ സജ്ജമാക്കുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ 5 ഡയഗണൽ എൻട്രിയിൽ നിന്ന് കുറയ്ക്കപ്പെടും അതിനാൽ ഇവിടെ നമുക്ക് ഈ 2 ജനറേറ്ററുകൾ ഉം ഉം ഉണ്ട് അതിനാൽ ഈ കേസിൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുന്നത് ഇത് നമുക്ക് ലഭിക്കുന്നത് എതെങ്കിലുമൊന്ന് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തെ സംതൃപ്തമാക്കുന്നു ഇവിടെ നൽകിയ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു കൂടാതെ തന്നിരിക്കുന്ന സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു കൂടാതെ ഇവ രണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻസ്ഡാണ് അത് ഘടനയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും പോലുള്ള ഏത് ലീനിയർകോമ്പിനേഷനും നമ്മൾ 0 ആയി സജ്ജമാക്കുകയാണെങ്കിൽ എന്നിവ 0 ആയിരിക്കണം അതിനാൽ ഈ കേസിനായി ലീനിയർ ഇൻഡിപെൻഡൻസി എളുപ്പത്തിൽ പരിശോധിക്കാൻ അത് പറയുന്നു അതിനാൽ ഈ λ 5 എന്നതിന് അനുബന്ധമായി നമുക്ക് ലഭിക്കുന്നത് ആവർത്തിച്ചുള്ള ഐഗൺ വാല്യൂ ആണ് കൂടാതെ ഈ നെ തൃപ്തിപ്പെടുത്തുന്ന രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻഡ് വെക്റ്ററുകളും നമ്മൾക്ക് ഇവിടെ ലഭിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി λ 5 ന് അനുബന്ധമായി നമുക്ക് 2 ഐഗൺവെക്ടറുകൾ അഥവാ 2 രേഖീയമായി സ്വതന്ത്രമായ ഐഗൺവെക്ടറുകൾ ലഭിക്കുന്നു എന്ന് പറയാൻ ഈ കേസിൽ നമുക്ക് ലഭിക്കുന്നു ഇപ്പോൾ ഇവിടെ മറ്റൊരു പ്രോബ്ലം നോക്കിയാൽ ഈ മാട്രിക്സിന്റെ ഐഗൺസ് സ്പേസ്ന്റെ ബെയ്സിസ് കണ്ടെത്തുക എന്നതാണ് എ 2 1 0 0 0 2 1 0 0 0 2 1 0 0 0 2 ക്യാരക്ടറിസ്റ്റിക് സമവാക്യം ഐഗേൻ വാല്യൂകൾ അതിനാൽ ഇത് നമ്മളുടെ സമവാക്യ സിസ്റ്റമായി നമ്മൾക്ക് ലഭിച്ചു ഇവിടെ റോ റെഡ്യൂസ്ഡ് ഫോം ലഭിക്കാൻ ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല കാരണം ഇത് ഇതിനകം തന്നെ റെഡ്യൂസ്ഡ് ഫോമാണ് ഇവിടെ ഈ ഘടന വ്യക്തമായി കാണാൻ കഴിയും ഈ പ്രത്യേക ഉദാഹരണത്തിൽ 2 പലതവണ ആവർത്തിച്ചെങ്കിലും 2 4 തവണ ആവർത്തിച്ചെങ്കിലും ഇവിടെ നമുക്ക് ഒരു ഫ്രീ വേരിയബിൾ മാത്രമേയുള്ളൂ എന്നാൽ നമുക്ക് ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഒരു ഐഗൺവെക്ടർ മാത്രമാണ് ലഭിക്കുന്നത് അതേസമയം മുമ്പത്തെ ഉദാഹരണത്തിൽ രണ്ട് തവണ ആവർത്തിച്ചതും ആ സമവാക്യത്തിന്റെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ രണ്ട് പരിഹാരങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ 2 നാല് തവണ ആവർത്തിച്ചെങ്കിലും 4 തവണ ആവർത്തിച്ച ഐഗൺവാലുവുമായി ബന്ധപ്പെട്ട 1 ഐഗൺവെക്റ്റർ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ അതിനാൽ ഈ ഉദാഹരണത്തിലൂടെ ഇപ്പോൾ നമ്മൾ എന്താണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഐഗൻ വാല്യൂവിനെ അടിസ്ഥാനമാക്കി എന്തും സാധ്യമാണ് അത് പലതവണ ആവർത്തിച്ചാലും നമുക്ക് ഒന്നും അവകാശപ്പെടാനാകില്ല ഇവിടെ ഈ സാഹചര്യം ഉണ്ടായി കാരണം ഐഗൺവാല്യൂ 4 തവണ ആവർത്തിച്ചു പക്ഷേ നമ്മൾക്ക് ലഭിക്കുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഒരു ഐഗൺവെക്ടർ മാത്രമാണ് ഈ സാഹചര്യത്തിൽ ഇത് ആണ്

ഐഗൺവെക്ടറുകൾ λ 2 ഐഗൺ സ്പേസ്ന്റെ ബെയ്സിസ് Thus a basis of eigenspace അതിനാൽ ഈ മാട്രിക്സ് ന്റെ ഐഗൻ വാല്യൂകളും ഐഗൺവെക്റ്ററുകളും നമ്മൾ തിരയുന്ന മറ്റൊരു ഉദാഹരണം അതിനാൽ ഇവിടെ നമ്മൾ ഈ കണക്കാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും

എന്നാൽ ഈ കേസിൽ ഐഗൺ വാല്യൂകൾക്കായി 2 കോംപ്ലക്സ് വാല്യൂകൾ നമ്മൾ ഇവിടെ ലഭിക്കുന്നു അതിനാൽ ഇത് വീണ്ടും മാട്രിക്സ് എൻട്രികൾ റിയൽ ആയിരിക്കും എങ്കിൽ അത് നമുക്ക് ഒരു റിയൽ മാട്രിക്സ് ഉണ്ടായിരിക്കും എന്നാൽ ഇപ്പോഴും ഈ ക്യാരക്ടറിസ്റ്റിക് സമവാക്യത്തിന്റെ റൂട്ടുകൾ കോംപ്ലക്സ്മായ റൂട്ടുകൾ നമുക്ക് ലഭിച്ചേക്കാം എന്ന് കാണിക്കുന്നു അതായത് ഐഗൺ വാല്യൂകൾ കോംപ്ലക്സ്മാകാം അതിനാൽ ഒരു യഥാർത്ഥ മാട്രിക്സിന് കോംപ്ലക്സ് ഐഗൺ വാല്യൂകൾ ഉണ്ടായിരിക്കാം അതിനാൽ നമ്മൾക്ക് 1 ഐഗൺ വാല്യൂ ഉണ്ട് മറ്റൊന്ന് ആണ് ഈ ഐഗൻ വാല്യൂകൾ എല്ലായ്പ്പോഴും കോഞ്ചുഗേറ്റ് ഫോമിൽ ദൃശ്യമാകുമെന്ന് നമ്മൾ പിന്നീട് കാണും കാരണം റൂട്ട് എല്ലായ്പ്പോഴും അവിടെ ദൃശ്യമാകും മാത്രമല്ല ഈ കോഞ്ചുഗേറ്റ് ഐഗൺ വാല്യൂകൾക്ക് അനുയോജ്യമായ ഐഗൺ വെക്റ്ററുകൾക്ക് കൂടുതൽ രസകരമായ എന്തെങ്കിലും നമ്മൾക്ക് ലഭിക്കും ഈ സംയോജിത ഐഗൻ വാല്യൂകൾക്കനുസൃതമായി അതിനാൽ വീണ്ടും നമ്മൾ ഈ ഐഗൻ വാല്യൂകൾഉം സമവാക്യ സംവിധാനവും എടുത്താൽ ന് അനുയോജ്യമായ ഐഗൺ വെക്റ്റർ ഇതിൽ എന്ന എലമെന്ററി ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നു ഇതിൽ നിന്നും നമുക്ക് എന്ന് ലഭിക്കുന്നു

അതിനാൽ ന് അനുയോജ്യമായ ഐഗൺ വെക്റ്റർ എന്ന് ലഭിക്കുന്നു ന് അനുയോജ്യമായ ഐഗൺ വെക്റ്റർ എന്ന എലമെന്ററി ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നു ഇതിൽ നിന്നും നമുക്ക് എന്ന് ലഭിക്കുന്നു അതിനാൽ ന് അനുയോജ്യമായ ഐഗൺ വെക്റ്റർ എന്ന് ലഭിക്കുന്നു അതിനാൽ ഐഗൺവെക്റ്റർ അല്ലെങ്കിൽ ഇവിടെയുള്ള ഐഗൺവെക്റ്ററുകളിലൊന്ന് അതിന്റെ കോഞ്ചുഗേറ്റ്മായി ബന്ധപ്പെട്ട ഐഗൺവെക്റ്ററിന് അനുയോജ്യമായി നമ്മൾക്ക് ലഭിച്ച വെക്ടർന്റെ കോഞ്ചുഗേറ്റ് കൃത്യമായി ലഭിക്കുന്നു അതിനാൽ ഇത് ഇവിടെ പൊതുവായ ഒരു നല്ല റിസൾട്ട് ആണ് അതായത് കോംപ്ലക്സ് ഐഗൺ വാല്യൂകൾ ഉള്ള ഒരു റിയൽ മാട്രിക്സ് ആണ് A ഒരു ഐഗൻ വാല്യൂ ആണ് എങ്കിൽ അതിൻറെ കോഞ്ചുഗേറ്റ് ഉം ഒരു ഐഗൺ വാല്യൂ ആയിരിക്കും അത് സ്വാഭാവികമാണ് ക്യാരക്ടറിസ്റ്റിക് സമവാക്യത്തിൽ നിന്നും വരുന്നു അതിനാൽ കോഞ്ചുഗേറ്റ് എല്ലായ്പ്പോഴും റൂട്ട് ആയി ഉണ്ടാകും അതിനാൽ ഇവിടെ എന്താണ് രസകരമായത് രസകരമായ കാര്യം ഈ ൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് രണ്ട് വശങ്ങളിലും കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ A ഒരു റിയൽ മാട്രിക്സ് ആയതിനാൽ നമുക്ക് ലഭിക്കുന്നത് ആണ് അതിനാൽ നമുക്ക് വീണ്ടും ഈ സമവാക്യം ഉണ്ട് ഈ സമവാക്യത്തിൻറെ ഐഗൺവെക്റ്റർ അതായത് x ന്റെ കോഞ്ചുഗേറ്റ് സമവാക്യം ഈ തൃപ്തിപ്പെട്ടിരിക്കുന്നു വലതുവശ ത്ത് വെറും ആണ് അതിനാൽ ഇവിടെ പറയുന്നത് ഈ അതായത് x ന്റെ കോഞ്ചുഗേറ്റ് അതായത് യുടെ കോഞ്ചുഗേറ്റ്ന് അനുയോജ്യമായ ഐഗൺവെക്റ്റർ ആയിരിക്കും അതിനാൽ ഈ ഫലം നമുക്കറിയാവുന്നതിനാൽ തീർച്ചയായും നമ്മൾ ഇത് കണക്കുകൂട്ടേണ്ടതില്ല ഒരു കോംപ്ലക്സ് വാല്യൂ യുമായി ബന്ധപ്പെട്ട ഐഗൺവെക്റ്റർ നമുക്ക് ലഭിച്ചുകഴിഞ്ഞാൽ അതിന്റെ കോഞ്ചുഗേറ്റ് ഐഗൺവാല്യൂ യുടെ കോഞ്ചുഗേറ്റ്ന് അതായത് ന് അനുയോജ്യമായ ഐഗൺവെക്റ്റർ ആയിരിക്കും കോഞ്ചുഗേറ്റ് റൂട്ടുകളെക്കുറിച്ച് അഥവാ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഐഗൺവെക്റ്റർകളെക്കുറിച്ച് ഉള്ള രസകരമായ ഫലം ഇതാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ വ്യത്യസ്തമായ ഐഗൺ വാല്യൂകൾക്കനുസൃതമായ ഐഗൺവെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് കുറഞ്ഞത് കണക്കുകൂട്ടലുകൾക്കായി എങ്കിലും നമ്മൾ അത് നിരീക്ഷിച്ചു ന്യൂമെറിക്കൽ കാൽക്കുലേഷനുകളിൽ അത് നമുക്ക് ഉണ്ടായിരുന്നു ഒരു റിയൽ മാട്രിക്സിന് കോംപ്ലക്സ് ഐഗൺ വാല്യൂകൾ ഉണ്ടായിരിക്കാമെന്ന് നമ്മൾ ഇവിടെ നിരീക്ഷിച്ചു അത് ഇവിടെ രസകരമാണ് ഐഗൺവാല്യൂകളും ഐഗൺവെക്റ്ററുകളും ശരിയായ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ജോഡിയാണ് ഐഗൺവാല്യൂവായി നമുക്ക് കോംപ്ലക്സ് വാല്യൂ ലഭിച്ചുകഴിഞ്ഞാൽ അതിന്റെ കോഞ്ചുഗേറ്റ് അവിടെ ഉണ്ടാകും മാത്രമല്ല ഐഗൺ വെക്റ്ററുകളും കോഞ്ചുഗേറ്റ് ജോഡികളായിരിക്കും അത് നമ്മൾ കണ്ട രസകരമായ ഫലമാണ് അത് പൊതുവെ സത്യമാണ് നമ്മൾ ഇപ്പോൾ കാണിച്ച ഉദാഹരണത്തിനു മാത്രമല്ല ലെക്ച്ചറുകൾക്ക് വേണ്ടി ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി